അതിനാൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് I എന്ന ലെക്ചർ നമ്പർ 26 ലേക്ക് സ്വാഗതം ബീറ്റ ഗാമ ഫംഗ്ഷൻ എന്നിവയെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ തുടരും ഇoപ്രോപ്പർ ഇന്റഗ്രലുകൾക്കുള്ള പ്രത്യേക തരം ഉദാഹരണങ്ങളാണ് ഇവ ഇന്ന് നമ്മൾ പ്രധാനമായും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും ആ ഇന്റഗ്രലുകളെ എങ്ങനെ വിലയിരുത്താമെന്നും സംസാരിക്കും കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആ ഇന്റഗ്രലുകളുടെ കൺവെർജെൻസ് ഞങ്ങൾ ഇതിനകം കണ്ടു ആയിരിക്കുമ്പോൾ കൺവെർജ് ചെയ്യുന്നു ഇoപ്രോപ്പർ ഇന്റഗ്രൽ ആയിരുന്നു ബീറ്റ ഫംഗ്ഷൻ എന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ പവർ എക്സ്പോണന്റിലുള്ള സംഖ്യ m n എന്നിവ കർശനമായി പോസിറ്റീവ് ആണ് m n≤0 ആയിരിക്കുമ്പോൾ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു ഗാമ ഫംഗ്ഷനായി ഈ മിക്സഡ് ടൈപ്പ് ഇoപ്രോപ്പർ ഇന്റഗ്രൽ ഇത് n 0 ആണെങ്കിൽ കൺവെർജ് ചെയ്യുന്നു n≤0 ആയിരിക്കുമ്പോൾ ഡൈവേർജ് ചെയ്യുന്നു ആദ്യം ഞങ്ങൾ ബീറ്റ ഫംഗ്ഷന്റെ ഒരു നല്ല പ്രോപ്പർട്ടി ചർച്ച ചെയ്യും ഇത് സിമ്മെട്രി പ്രോപ്പർട്ടിയാണ് ഇത് ന്റെ ഇoപ്രോപ്പർ ഇന്റഗ്രലാണ് കൂടാതെ എന്നതിന് പകരമായി ഇവിടെ എന്ന് നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും അതിനാൽ നമുക്ക് അത് ഇവിടെ ചെയ്യാം ഇവിടെ പകരം വയ്ക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ തുടർന്ന് ഈ ഇന്റഗ്രൽ അതിനാൽ x 0 അതിനാൽ y 1 എന്നിട്ട് നമുക്ക് ഇവിടെ 0 ഉണ്ട് അതിനാൽ അതിനാൽ ഇവിടെ x ആയി മാറുന്നു അതിനാൽ നമുക്ക് ഉം 1 മൈനസ് x y ഉം ആണ്

അതിനാൽ ഇത് നമുക്ക് ഇപ്പോൾ പഴയപടിയാക്കാനാകും അതിനാൽ ഇത് വീണ്ടും ബീറ്റ ഫംഗ്ഷനാണ് ഞങ്ങളുടെ നൊട്ടേഷൻ അനുസരിച്ച് ഇത് ബീറ്റയെ സൂചിപ്പിക്കും അതിനാൽ ഇത് ഇവിടെ ആണ് അതിനാൽ ഇത് ആണ് അതിനാൽ ഞങ്ങളുടെ നൊട്ടേഷൻ അനുസരിച്ച് ഇത് ആണ്

അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ സിമ്മെട്രി പ്രോപ്പർട്ടി ഉണ്ട് അതിനാൽ ഞങ്ങൾ ഈ അല്ലെങ്കിൽ കണക്കുകൂട്ടുന്നുണ്ടോ എന്നത് പ്രശ്നമല്ല ഭാവിയിൽ ചർച്ചക്ക് ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിൽ സൂക്ഷിക്കുക ഈ ബീറ്റ ഫംഗ്ഷൻ എങ്ങനെ വിലയിരുത്താം ചോദ്യം വിലയിരുത്തലാണ് കാരണം ഇവ പ്രത്യേക ഇന്റഗ്രലുകൾ ഇoപ്രോപ്പർ ഇന്റഗ്രലുകൾ ഈ ബീറ്റ ഫംഗ്ഷൻ വിലയിരുത്തുന്നതിന് പ്രത്യേക ശ്രദ്ധ എന്നിവ ആവശ്യമാണ് അതിനാൽ ഇവിടെ n ഒരു പോസിറ്റീവ് സംഖ്യയാണെന്ന് കരുതുക അതിനാൽ മിക്ക കേസുകളിലും നമുക്ക് അത് ചർച്ചചെയ്യാം അല്ലെങ്കിൽ വളരെ ലളിതമായി ആ സമഗ്രത കണക്കാക്കാം അതിനാൽ n ഒരു പോസിറ്റീവ് സംഖ്യയായി ഞങ്ങൾ ഇവിടെ പരിഗണിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ആയി കണക്കാക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഇത് ഭാഗങ്ങളായി ഇന്റഗ്രേറ്റ് ചെയ്യുകയും ഈ n ഒരു പോസിറ്റീവ് സംഖ്യയായി കണക്കാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫംഗ്ഷന്റെ ഈ ഭാഗം ഡിഫറെന്റഷിയേറ്റ് ചെയ്യുകയും മറുഭാഗങ്ങൾ ഇന്റഗ്രേഷൻ ചെയ്യുകയും ചെയ്യുന്നു

അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഏതെങ്കിലും പോസിറ്റീവ് നമ്പർ എടുക്കുമ്പോൾ എന്ന് ലഭിച്ചു m ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കുമ്പോൾ നമുക്ക് സമാനമായ കണക്കുകൂട്ടലുകൾ നടത്താം അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാനമായ ഫലം ലഭിക്കും കൂടാതെ നമുക്ക് ഈ m നെ n ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാനാകുമെന്നതാണ് ഫലം നമുക്ക് ഇവിടെ ഈ പദപ്രയോഗം m 1 ഉപയോഗിച്ച് എന്ന് ലഭിക്കും m ഉം n ഉം രണ്ടും പൂർണ്ണസംഖ്യകളാണെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ കേസ് ഉദാഹരണമായി എടുക്കാം ഇവിടെ m ഉം പൂർണ്ണസംഖ്യയായിരിക്കുമ്പോൾ അതിനർത്ഥം ഞങ്ങൾക്ക് m m 1 ഉണ്ട് അതിനാൽ ഈ പ്രോഡക്റ്റിൽ 1 ന്റെ വ്യത്യാസത്തോടെ ഈ സംഖ്യകൾ വീണ്ടും ദൃശ്യമാകുന്നു

ഇപ്പോൾ ഗാമ ഫംഗ്ഷൻ വിലയിരുത്താം ഞങ്ങൾക്ക് ഈ ഇന്റഗ്രൽ ഉണ്ട് ഈ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നല്ല ബന്ധo ലഭിക്കും

അതിനാൽ എന്ന ഈ ബന്ധം ഞങ്ങൾക്ക് ലഭിച്ചു ഈ ഗാമ ഫംഗ്ഷനുകൾ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന വളരെ ഉപയോഗപ്രദമായ ഒരു ബന്ധമാണിത് ഒരു പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ എന്ത് സംഭവിക്കും അതിനാൽ n ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കുമ്പോൾ നമുക്ക് ഈ കേസിൽ എളുപ്പത്തിൽ മൂല്യനിർണ്ണയം നടത്താൻ കഴിയും കാരണം നിർവചനം അനുസരിച്ച് അല്ലെങ്കിൽ ഈ റഫറൻസ് റിലേഷൻ അനുസരിച്ച് നമുക്ക് എന്താണ് n ലഭിക്കുന്നത് നമുക്ക് അതിനാൽ ഇവിടെ ഞാൻ ഉപയോഗിക്കുകയും ഞങ്ങൾ ഈ ബന്ധം ഉപയോഗിക്കുകയും ചെയ്താൽ ഇത് ആയിരിക്കും വീണ്ടും നായി നമുക്ക് ആ ബന്ധം ഉപയോഗിക്കാം അതിനാൽ ഞങ്ങൾക്ക് ഉണ്ട് ഇത് ആവർത്തിക്കുന്നത് തുടരാം അതിനാൽ n മൈനസ് n മൈനസ് 2 ഗാമ n മൈനസ് 2 അതിനാൽ അതിനാൽ ഇത് 2 1 തുടർന്ന് ലഭിക്കുന്നതുവരെ ഞങ്ങൾ തുടരും അതിനാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് അവിടെ പോലെ ലഭിക്കും അപ്പോൾ നമുക്ക് ഉം മറ്റും എഴുതാം അതിനാൽ n ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കുമ്പോൾ നമുക്ക് ഇത് ലഭിക്കും നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും ഇപ്പോൾ ഇത് അവസാനിക്കും കാരണം ഇത് ഒരു പോസിറ്റീവ് സംഖ്യയായതിനാൽ ഞങ്ങൾ കുറയ്ക്കുകയാണ് അതിനാൽ സ്വാഭാവികമായും ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കും അതിനാൽ ഈ ൽ നിന്ന് നോക്കിയാൽ n 0 എന്ന് പകരം വയ്ക്കുമ്പോൾ ഇന്റഗ്രലിൽ ഉണ്ട് n 0 അപ്രത്യക്ഷമാകുന്നു അതിനാൽ നമുക്ക് എന്ന ഇന്റഗ്രൽ ഉണ്ട് ഈ ഇന്റഗ്രൽ നമുക്ക് എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയും കാരണം ഇന്റഗ്രൽ ആയതിനാൽ നമുക്ക് ഇവിടെ 0 മുതൽ ഉണ്ട് അതിനാൽ x സമീപിക്കുമ്പോൾ നമുക്ക് 1 ലഭിക്കും അതിനാൽ ഇത് 1 ആയിരിക്കും അതിനാൽ ഈ ന്റെ മൂല്യം 1 ആണ് അതിനാൽ ഇപ്പോൾ ഈ മൂല്യം ഉള്ളതിനാൽ നമുക്ക് ഉണ്ട് അതിനർത്ഥം ഈ ലളിതമായ കേസിൽ n പൂർണ്ണസംഖ്യയാകുമ്പോൾ ഈ ഫാക്റ്റോറിയലിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് ഇപ്പോൾ അടുത്തതിലേക്ക് പോകുമ്പോൾ ഇന്റീരിയറിന് മാത്രമല്ല ഈ പകുതിയെങ്കിലും കുറഞ്ഞത് ഉപയോഗപ്രദമാണ് അതിനാൽ ഞങ്ങൾക്ക് ആ റഫറൻസ് ബന്ധം ഉണ്ടെങ്കിൽ അതിനാൽ ചില നോൺ ഇൻറിജർ നമ്പറുകൾക്കും ആ റഫറൻസ് റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് കണക്കുകൂട്ടാം അവസാനം ഈ ഗാമാ പകുതിയിൽ അവസാനിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് മൂല്യം നേടാനാകും അതിനാൽ ഇത് വീണ്ടും സഹായകരമാകും അതിനാൽ നമുക്ക് ന്റെ നിർവചനങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിക്കാൻ കഴിയും അതിനാൽ എന്നതിന് പകരമായി ഈ നെ ഈ ഇന്റഗ്രലിൽ പകരം വച്ചാൽ ഇതിന് ഈ ഗാമ ഇന്റഗ്രലിന്റെ മറ്റൊരു രൂപം ഉണ്ടാകും അതിനാൽ പകരക്കാരന് എന്ത് സംഭവിക്കും dx ആയി ലിമിറ്റുകൾ അതേപടി തുടരും അതിനാൽ നമുക്ക് ഉണ്ടാകും അതിനാൽ ഈ ഗാമ ഇന്റഗ്രൽ ന്റെ മറ്റൊരു രൂപമാണിത് അതിനാൽ ഇത് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ n ന് എന്നതിന് പകരമായി ഉപയോഗിക്കും അതിനാൽ ഞങ്ങൾക്ക് ഉണ്ട് ഇത് അറിയപ്പെടുന്ന ഇന്റഗ്രൽ ആണ് ഇത് നമ്മൾ എപ്പോൾ സംസാരിക്കും എന്നതിനെക്കുറിച്ചും വിലയിരുത്തും പിന്നീട് ഇരട്ട ഇന്റഗ്രൽ ഈ ഇന്റഗ്രൽ യുടെ മൂല്യം വാസ്തവത്തിൽ ഈ ന്റെ മൂല്യം ഞങ്ങൾ പിന്നീട് കാണും അതിനാൽ ഇപ്പോൾ ഇത് സങ്കല്പിക്കാംഇത് വളരെ ഉപയോഗപ്രദമായ ഇന്റഗ്രലാണ് മൂല്യം ഓർമിക്കുന്നതും വളരെ നല്ലതാണ് ഇത് ഇപ്പോൾ ഉള്ളതിനാൽ നമുക്ക് ഇത് 2 തവണ വിലയിരുത്താൻ കഴിയും ഈ ഇടവേളയുടെ മൂല്യം ആയി മാറുന്നു കാരണം ഇത് പകുതി റേഞ്ചിലാണ് മൈനസ് മുതൽ ഇൻഫിനിറ്റി വരെയല്ല പക്ഷേ ഇത് 0 മുതൽ ഇത് റദ്ദാക്കപ്പെടുന്നു അതിനാൽ മൂല്യമുണ്ട് അതിനാൽ മൂല്യനിർണ്ണയം കൂടാതെ ഈ മൂല്യം ഞങ്ങൾ ഉപയോഗിച്ചു പക്ഷേ കുറച്ച് പ്രഭാഷണങ്ങൾക്ക് ശേഷം ഇരട്ട ഇന്റഗ്രലുകൾ ചർച്ചചെയ്യുമ്പോൾ ഞങ്ങൾ ഇത് വിലയിരുത്തും ഇപ്പോൾ ഗാമാ ഫംഗ്ഷനായി നിരവധി വ്യത്യസ്ത ഫോമുകൾ ഉണ്ട് അതുപോലെ ബീറ്റ ഫംഗ്ഷനായ നും മറ്റൊരു ഫോം ലഭിച്ചു അതിനാൽ ഇന്റഗ്രലുകൾ വിലയിരുത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു ഫോർമാറ്റിൽ ഇന്റഗ്രലുകൾ തിരിച്ചറിയുന്നതിനോ ഉപയോഗപ്രദമാകുന്ന ചില ഫോമുകളിലൂടെ നമുക്ക് പോകാം അതിനാൽ ഞങ്ങൾക്ക് എന്നതിന്റെ സ്റ്റാൻഡേർഡ് നിർവചനം ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ പകരം വയ്ക്കുകയാണെങ്കിൽ ഇവിടെ അതിനാൽ നിങ്ങളുടെ dx ആയി മാറും അതിനാൽ ഇതായിരിക്കും ബന്ധo തുടർന്ന് ഈ ആകും അതിനാൽ നമുക്ക് പരിമിതികളെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ x x ഇവിടെ 0 ലേക്ക് അടുക്കുമ്പോൾ y അടുക്കുന്നു അതിനാൽ ഈ മൈനസ് ചിഹ്നമായി നമുക്ക് ഈ ഇന്റഗ്രൽ ലഭിക്കും x 1 ലേക്ക് അടുക്കുമ്പോൾ ഇത് ലേക്ക് അടുക്കുന്നു x 1 ലേക്ക് അടുക്കുമ്പോൾ y 0 ലേക്കും അടുക്കുന്നു അതിനാൽ അതായത് അതിനാൽ y 0 ആണ് അതിനാൽ y 0 ലേക്ക് അടുക്കും തുടർന്ന് നമുക്ക് ഈ മൈനസ് ചിഹ്നം ഉണ്ട് അത് പരിധികൾ പഴയപടിയാക്കും

ഇപ്പോൾ പവറുകൾ സംയോജിപ്പിക്കുന്നു അതിനാൽ നമുക്ക് ഇവിടെ ഉണ്ട് ബീറ്റ ഫംഗ്ഷന്റെ മറ്റൊരു രൂപമാണിത് y പവർ n മൈനസ് 1 1 പ്ലസ് y പവർ m പ്ലസ് 1 കൂടാതെ ഈ പകരക്കാരനോടൊപ്പം ഇന്റഗ്രൽ ലിമിറ്റുകൾ പൂർണ്ണമായും മാറുന്നു അതിനാൽ യഥാർത്ഥ ഇന്റഗ്രേറ്റ് 0 മുതൽ 1 വരെ ആയിരുന്നു എന്നാൽ ഇത് സമാന ഫoഗ്ഷനാണ് എന്നാൽ ഇത് 0 മുതൽ വരെയാണ് കാരണം ഇത് ഒരു സിമ്മെട്രി ഫംഗ്ഷനാണ് അതിനാൽ m n നമുക്ക് m നെ n ഉം n നെ m ഉം കൊണ്ട് മാറ്റിസ്ഥാപിക്കാം അപ്പോൾ മൂല്യം ഉള്ളതിൽ വ്യത്യാസമില്ല അതിനാൽ ഈ ഇന്റഗ്രലിന് ന് തുല്യമായ മൂല്യമുണ്ട് ഈ പകരം വയ്ക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഫോം ലഭിക്കും അതിനാൽ ഈ ഉള്ളതിനാൽ ഇത് വീണ്ടും ആയി മാറും അതിനാൽ ആയിരിക്കുമ്പോൾ ലിമിറ്റുകൾ ആയിരിക്കുമ്പോൾ അത് 1 ആയിരിക്കും അതിനാൽ ഇത് ആയിരിക്കും അതിനാൽ ഇവിടെ ലഭിക്കുന്നു അതിനാൽ ത്രികോണമിതി പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഈ ന്റെ മറ്റൊരു രൂപമാണ് അതിനാൽ ആയി വരുന്നു ഇപ്പോൾ ഗാമാ ഫംഗ്ഷന്റെ ചില വ്യത്യസ്ത രൂപങ്ങളും നമുക്ക് നോക്കാം ഈ സാഹചര്യത്തിൽ പകരം വയ്ക്കുകയാണെങ്കിൽ ലിമിറ്റുകൾ അതേപടി തുടരും അതിനാൽ ഞങ്ങൾക്ക് ഈ ഇന്റഗ്രൽ ഉണ്ട് കൂടാതെ മറ്റൊരു വ്യത്യസ്ത രൂപവുമുണ്ട് ഈ പകരം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വളരെ ബുദ്ധിമുട്ടുള്ള ഫോം ലഭിക്കും കാരണം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു അതിനാൽ നമുക്ക് തുടർന്ന് അതിനാൽ ഇത് അതിനാൽ അധിക പദങ്ങളൊന്നും ഇവിടെ വരില്ല തുടർന്ന് ഞങ്ങൾക്ക് ഉണ്ട് അതിനാൽ ഈ ഗാമാ ഫംഗ്ഷന്റെ മറ്റൊരു രൂപമാണിത്

അതിനാൽ ഈ ഗാമയും ബീറ്റ ഫംഗ്ഷനും തമ്മിലുള്ള ബന്ധം m ഉം n ഉം രണ്ടും പൂർണ്ണസംഖ്യകളായിരിക്കുമ്പോൾ എന്നത് എന്ന് എഴുതാൻ കഴിയുമെന്ന് ഞങ്ങൾ കണ്ടു ഗാമ ഫംഗ്ഷന്റെ കാര്യത്തിൽ ഈ എന്നാൽ ഈ m ഉം n ഉം പൂർണ്ണസംഖ്യയല്ലാത്തപ്പോൾ അവ പോസിറ്റീവ് സംഖ്യ മാത്രമാണ്കാരണം ഇത് സ്വാഭാവികമായും നോൺ ഇന്റിജെർ സംഖ്യകൾക്കാണ് ഗാമ നിർവചിച്ചിരിക്കുന്നത് അതിനാൽ ഈ ബീറ്റ m n നെ ഗാമ mn നിൽ ഗാമ m ഗാമ n എന്ന് നിർവചിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഈ ഇന്റഗ്രൽ നിങ്ങൾക്കു വിലയിരുത്തണമെങ്കിൽ ബീറ്റ ഫംഗ്ഷന്റെ നിർവചനം ഞങ്ങൾക്കറിയാം അതിനാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പ്രയാസമാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ചില പകരക്കാരിലൂടെ നമുക്ക് ഈ രൂപത്തിലേക്ക് എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യാനും പിന്നീട് വിലയിരുത്താനും കഴിയും ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്നെടുക്കുന്നു അതിനാൽ ഇത് 1 t ആയിരിക്കും അതിന് ബീറ്റ ഫോം കാണണം അതിനാൽ ഇതിനർത്ഥം എന്നെഴുതാം അതിനാൽ ഇത് ആയി മാറും അതിനാൽ ഈ ബീറ്റയിൽ നമ്മൾ സംസാരിക്കുന്ന ഇന്റഗ്രലാണിത്

അതിനാൽ നമുക്ക് ഇത് ബീറ്റായായി എഴുതാം

അതിനാൽ ഈ ബീറ്റ ഫംഗ്ഷന്റെ സഹായത്തോടെ നിങ്ങൾക്ക് അത്തരം നിരവധി ഇന്റഗ്രൽ വിലയിരുത്താൻ കഴിയും അതിനാൽ ഈ ഫംഗ്ഷനുകൾ എങ്ങനെ വിലയിരുത്താം രണ്ട് നിർവചനങ്ങൾ ഞങ്ങൾ കണ്ടു പ്രധാനമായും രസകരമായത് 12 ന്റെ ഗാമാ ആയിരുന്നു കണക്കുകൂട്ടി കൂടാതെ ബീറ്റയും ഗാമ ഫംഗ്ഷനുകളും തമ്മിൽ ഈ ബന്ധം വളരെ ഉപയോഗപ്രദമാണ്

അതിനാൽ ഇവ എല്ലാം ഉപയോഗിച്ച റഫറൻസുകളാണ് വളരെ നന്ദി